തിരികെ സ്വാഗതം ഇത് ലെക്ച്ചർ നമ്പർ 49 ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി യെക്കുറിച്ചും ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി യെക്കുറിച്ചും മാട്രിക്സുകളുടെ സിമിലാരിറ്റി യെക്കുറിച്ചും ആയിരിക്കും അപ്പോൾ എന്താണ് ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി അത് ക്യാരക്ടറിസ്റ്റിക് സമവാക്യത്തിന്റെ റൂട്ട് ആയിട്ടുള്ള ലാമ്പ്ഡ യുടെ മൾട്ടിപ്ലിസിറ്റി ആണ് അതായത് ഓരോ യും എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് എന്നതിൻറെ എണ്ണം ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്നത് ലാംബഡയുടെ ഐഗൻസ്പേസിന്റെ ഡയമെൻഷൻ ആണ് അതായത് ഒരു ഐഗൻവാല്യൂ ലാംഡയുമായി ബന്ധപ്പെട്ട ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്ടറുകളുടെ എണ്ണം അതിനാൽ ഈ ലാംഡയുടെ മൾട്ടിപ്ലിസിറ്റിയെക്കുറിച്ച് പറയാൻ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് അക്കങ്ങളാണ് ഇവ നിരവധി ഉദാഹരണങ്ങളിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ടുകൾ എല്ലാ ഐഗൻ വാല്യൂകളും ആവർത്തിച്ചു അതിനാൽ ഈ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റിയുടെ സഹായത്തോടെ നമുക്ക് ഇപ്പോൾ കണക്കാക്കാം ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി ഉദാഹരണത്തിന് ഒരു റൂട്ട് 3 തവണ ആവർത്തിക്കുകയാണെങ്കിൽ പ്രത്യേക റൂട്ടിന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 3 ആണ് ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഐഗൻസ്പേസിന്റെ ഡയമെൻഷനോ അല്ലെങ്കിൽ ആ പ്രത്യേക ഐഗൻ വാല്യൂ ലാംഡയുമായി ബന്ധപ്പെട്ട ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളുടെ എണ്ണമോ ആയിരിക്കും അതിനാൽ ഈ രണ്ട് വർഗ്ഗീകരണത്തിലൂടെ നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകും എന്നാൽ അതിനുമുമ്പ് ഇവിടെ ഒരു കുറിപ്പ് ഉണ്ട് ഈ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എല്ലായ്പ്പോഴും ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റിയേക്കാൾ കുറവോ തുല്യമോ ആണ് അത് ഒരാൾക്ക് ഔപചാരികമായി തെളിയിക്കാൻ കഴിയുന്ന ഒരു സുപ്രധാന ഫലമാണ് പക്ഷേ ഇതിന് ഡയഗണലൈസേഷൻ മുതലായവയെക്കുറിച്ച് ഉള്ള കൂടുതൽ അറിവ് ആവശ്യമാണ് അതിനാൽ നമ്മൾ ഇപ്പോൾ ഈ ഫലം തെളിയിക്കില്ല പക്ഷേ ഈ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എല്ലായ്പ്പോഴും ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റിയേക്കാൾ കുറവോ തുല്യമോ ആണെന്ന് നമ്മൾ ഓർക്കും ഉദാഹരണത്തിന് ഒരു പ്രത്യേക റൂട്ട് ഒരു പ്രത്യേക ഐഗൻ വാല്യൂ 3 തവണ ആവർത്തിക്കുന്നു എന്നതിനർത്ഥം അനുബന്ധ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്ടറുകളുടെ എണ്ണം 3 ൽ കൂടരുത് അവ 3 ൽ കുറവോ തുല്യമോ ആയിരിക്കണം എന്നാണ് അതിനാൽ ഇവിടെ എന്ത് സാഹചര്യങ്ങൾ ആണ് ഉണ്ടാകുന്നതെന്ന് ആദ്യം നിരവധി ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നമുക്ക് കാണാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ മാട്രിക്സ് ന്റെ ഐഗൻ വാല്യൂകളും ഐഗൻവെക്റ്ററുകളും നമ്മൾ കണ്ടെത്തുന്നു അതിനാൽ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിരവധി മെട്രിക്സുകൾക്കായി നമ്മൾ ഇതിനകം കണക്കാക്കിയ ഐഗൻവാലുവും ഐഗൻവെക്റ്ററുകളും നമ്മൾ കണക്കാക്കിയിരുന്നു അതിനാൽ ഐഗൻ വാല്യൂകളുടെ കണക്കുകൂട്ടൽ നമുക്ക് ഇപ്പോൾ പരിചിതമാണ് അതിനാൽ ഇവിടെ ആദ്യം ഈ മാട്രിക്സിന്റെ ക്യാരക്ടർസ്റ്റിക് സമവാക്യം രേഖപ്പെടുത്തണം അത് ആണ് ഈ മാട്രിക്സിനായി നമുക്ക് ഇവിടെ ഈ ഡിറ്റർമിനന്റ് കണക്കാക്കാം അതിനാൽ അത് പോലെയായിരിക്കും അതിനാൽ ഞാൻ ഈ ഭാഗം ഇവിടെ ഒഴിവാക്കുന്നു കാരണം ഈ പ്രഭാഷണത്തിൽ പ്രാധാന്യമില്ലാത്തത് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ നമ്മൾക്ക് എന്താണ് ഉള്ളത് ഈ മാട്രിക്സിന്റെ ഈ ക്യാരക്ടറിസ്റ്റിക് സമവാക്യം നമുക്ക് ഇവിടെ ആയി ഉണ്ട് അതിനാൽ നമ്മൾ ഇപ്പോൾ നിരീക്ഷിക്കുന്നത് രണ്ട് വ്യത്യസ്തമായ ഐഗൻ വാല്യൂകൾ ഉണ്ടെന്നും ഒന്ന് 2 തവണ ആവർത്തിക്കുന്നുവെന്നും അതിനർത്ഥം λ 2 2 8 അതിനാൽ ഈ ഐഗൻവാല്യൂ 2 രണ്ടുതവണ ആവർത്തിക്കുകയും ഈ 8 ഒരു തവണ ആവർത്തിക്കുകയും ചെയ്യുന്നു കൃത്യമായി ഈ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് അതാണ് അതിനാൽ ഈ എന്ന ഐഗൻ വാല്യൂവിന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 2 ആണ് കാരണം ഇവിടെ 2 രണ്ടു തവണ ആവർത്തിക്കുന്നതിനാലാണ് അതിനാൽ λ 2 യുടെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 2 ഉം λ 8 ന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 1 ഉം ആണ് കാരണം ഇത് ഒരിക്കൽ മാത്രം ആവർത്തിക്കുന്നതാണ് അതിനാൽ ഈ λ 8 ന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 1 അതിനാൽ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി ഇങ്ങനെയാണ് നിർവചിക്കുന്നത് λ 2 അല്ലെങ്കിൽ λ 8 ഇവയുടെ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി നിർവചിക്കുന്നതിന് ഈ ഐഗൻ വാല്യൂകളുടെ ഐഗൻ വെക്റ്ററുകളുടെ ഐഗൻ സ്പേസ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതിനാൽ ഈ ന് അനുയോജ്യമായ ഐഗൻവെക്ടർ ഇത് ഓർക്കുക λ 8 ഒരു പ്രാവശ്യം ആവർത്തിച്ചു എന്നിരുന്നാലും ഈ കേസിൽ ഇപ്പോൾ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 ൽ കൂടുതൽ ആകാൻ കഴിയില്ല എന്ന ഫലം നമ്മൾക്കുണ്ട് കാരണം λ 8 ന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 1 ആണ് ഐഗൻവെക്ടറുകളുടെ കണക്കുകൂട്ടൽ കൂടാതെ തന്നെ നമുക്ക് ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് അവകാശപ്പെടാം കാരണം തീർച്ചയായും ഈ λ 8 ന് അനുയോജ്യമായ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻവെക്ടർ ഉണ്ടാകും അതിനാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ രണ്ട് ഐഗൻവെക്ടറുകൾ ഉണ്ടാകാൻ കഴിയില്ല അതായത് ഈ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി എല്ലായ്പ്പോഴും ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയേക്കാൾ വലുതാണെന്ന് നമുക്ക് ലഭിക്കുന്ന ഫലം പറയുന്നു അതിനാൽ ഇവിടെ നമുക്ക് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്റ്ററുകൾ ഉണ്ടാകില്ല എന്ന് മുൻകൂട്ടി അറിയാം അതിനാൽ ഇത് ഒന്നായിരിക്കണം കാരണം ന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 1 ആണ് ഇതിന് കുറഞ്ഞത് 1 ഐഗൻവെക്ടറുകളെങ്കിലും ഉണ്ടായിരിക്കണം കാരണം അതാണ് ഫൌണ്ടേഷൻ പറയുന്നത് നമ്മൾക്ക് ഇതിനകം ഈ ഉണ്ട് ഡിറ്റർമിനന്റ് 0 ന് തുല്യമാണ് നമുക്ക് എല്ലായ്പ്പോഴും നിസ്സാരമല്ലാത്ത പരിഹാരമുണ്ട് ഇവിടെ ഈ സമവാക്യത്തിന് തീർച്ചയായും ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഒരു ഐഗൻവെക്റ്റർ ഉണ്ടാകും എന്നാൽ രണ്ടെണ്ണം ഉണ്ടാകില്ല ഇതാണ് ഈ കേസിലും നമ്മൾ കാണുന്നത് അതിനാൽ ഇത് അതിനാൽ ഈ λ 8 ഇവിടെ A യുടെ ഡയഗണൽ എൻട്രികളിൽ നിന്ന് കുറയ്ക്കപ്പെട്ടു തുടർന്ന് നമുക്ക് ഉം വലതുവശത്ത് ഈ വെക്റ്ററും ഉണ്ട് ഇത് ഈ സിസ്റ്റത്തിന് അനുബന്ധമായ മാട്രിക്സ്ൻറെ റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ പിവറ്റ് ഒരു ഘടകമാണെന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു രണ്ടാമത്തെതിലും നമുക്ക് പിവറ്റ് ഘടകം ഉണ്ട് അതിനാൽ ആദ്യ രണ്ട് കോളങ്ങൾക്ക് പിവറ്റ് ഘടകമുണ്ട് മൂന്നാമത്തെ കോളത്തിന് പിവറ്റ് ഘടകം ഇല്ല അതിനാൽ ഇത് ഈ വെക്റ്ററിന്റെ ഈ ഘടകവുമായി യോജിക്കുന്നു കൂടാതെ ഇത് നമുക്ക് ഫ്രീ വേരിയബിളായി എടുക്കാം ഒരു ഫ്രീ വേരിയബിൾ മാത്രമേ ഉണ്ടാകൂ എന്നത് അവിടെ നിന്നും വ്യക്തമാണ് കാരണം ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി ഒന്നായിരുന്നു അതിനനുസൃതമായി നമുക്ക് രണ്ട് ഫ്രീ വേരിയബിളുകൾ ലഭിക്കില്ല അതിനാൽ ഫ്രീ വേരിയബിളുകളുടെ എണ്ണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്ടറുകളുടെ എണ്ണത്തെക്കുറിച്ച് പറയുന്നു അതിനാൽ ഇവിടെ നമുക്ക് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്ടർ ഉണ്ടായിരിക്കില്ല അതിനാൽ ഈ കേസിൽ ഒരു ഫ്രീ വേരിയബിൾ മാത്രമേ ഉണ്ടാകൂ എന്ന് നമ്മൾക്ക് മുൻകൂട്ടി അറിയാം രണ്ട് ഫ്രീ വേരിയബിളുകൾ ഉണ്ടാകില്ല അതിനാൽ ഈ ഒരു ഫ്രീ വേരിയബിൾ ആണ് അതിനെ നമുക്ക് എന്നായി തിരഞ്ഞെടുക്കാം യുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്നിവ കണക്കാക്കാം അതിനാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഒരേയൊരു ഐഗൻവെക്റ്റർ മാത്രമാണ് ഈ യുടെ വ്യത്യസ്ത മൂല്യങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റേതെങ്കിലും ഐഗൻവെക്റ്റർ അവ ഈ ൽ ആശ്രയിക്കുന്ന ഐഗൻവെക്റ്ററുകളാണ് അതിനാൽ ഈ കേസിൽ നമ്മൾക്ക് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്ടർ മാത്രമേ ലഭിച്ചുള്ളൂ അതിനാൽ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 എന്ന് നമ്മൾ പറയുന്നു അത് തന്നിരിക്കുന്ന ഐഗൻ വാല്യൂ λ 8 ന് അനുയോജ്യമായ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻവെക്റ്ററുകളുടെ എണ്ണം ഇവിടെ 1 ആണ് അതിനാൽ ഈ λ 8 ന്റെ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 അതിനാൽ ഇവിടെ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻ വെക്റ്ററുകളുടെ എണ്ണം നമ്മൾ ഈ ഐഗൻ വാല്യൂകളിലേക്ക് വരുമ്പോൾ അതിലൊന്ന് λ 2 ഇത് 2 പ്രാവശ്യം ആവർത്തിച്ചു എന്നത് ഓർക്കുക അർത്ഥമാക്കുന്നത് λ 2 യുടെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 2 ആയിരുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ അനുബന്ധ ഐഗൻ വെക്റ്ററുകൾ അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ അനുബന്ധ ഐഗൻ വെക്റ്ററുകൾ 2 എണ്ണം ഉണ്ടായിരിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് പരമാവധി 2 പക്ഷേ 1 ഉം ഉണ്ടായിരിക്കാം നമുക്ക് അവ മുൻകൂട്ടി അറിയാൻ കഴിയില്ല കാരണം ഈ ഐഗൻവാല്യൂ നോക്കുമ്പോൾ നമുക്ക് എത്ര ഐഗൻവെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഈ λ 2 ന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 2 ആയതിനാൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 2 ൽ കുറവോ തുല്യമോ ആയിരിക്കും അതിനാൽ ഈ കേസിൽ ഇപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്റ്ററുകളുടെ എണ്ണം 1 ആകാം അല്ലെങ്കിൽ 2 ആകാം അതിനാൽ നമുക്ക് ഇത് കണക്കാക്കാം അതിനാൽ ഈ ഈ സമവാക്യത്തിന് രേഖീയ സമവാക്യത്തിന്റെ സിസ്റ്റം ലഭിക്കുകയും തുടർന്ന് എക്കെലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു

രേഖീയ സമവാക്യ സംവിധാനത്തിന്റെ ഈ റോ റെഡ്യൂസ്ഡ് ഫോം നമ്മൾ എഴുതി ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്റ്ററുകൾ ഉണ്ടാകും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിനാൽ ഈ കേസിൽ ഇത് മൈനസ് 2 പിവറ്റ് ഘടകമാണ് കൂടാതെ കോളം നമ്പർ രണ്ട് ഇവിടെ ഒരു പിവറ്റ് ഇല്ല കൂടാതെ നമ്മൾക്ക് പിവറ്റ് ഇല്ല അതിനാൽ കോളം നമ്പർ 1 ൽ ഒരു പിവറ്റ് മാത്രമേയുള്ളൂ അതിനാൽ ഇവിടെ എന്നിവ ഫ്രീ വേരിയബിളുകളായിരിക്കും അതിനാൽ ഇപ്പോൾ ഫ്രീ വേരിയബിളുകൾ ഉണ്ടാകും അതിനാൽ നമുക്ക് അവക്ക് ഏത് മൂല്യവും നൽകാം അതിനർത്ഥം നമുക്ക് ഇപ്പോൾ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്ടറുകൾ ഉണ്ടായിരിക്കാൻ പോകുന്നു കാരണം ഫ്രീ വേരിയബിളുകളുടെ എണ്ണം എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻവെക്ടറുകൾ നമുക്ക് ലഭിക്കുമെന്ന് തീരുമാനിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്ടറുകൾ ലഭിക്കും അതാണ് നമ്മൾ എഴുതുന്നത്

അതിനാൽ നമ്മൾക്ക് ഈ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്ടർ ലഭിച്ചു ഇതും ഇതും അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പരിശോധിക്കാൻ കഴിയും അതിനാൽ ആ λ 2 ന് അനുബന്ധമായി ഇത് 2 തവണ ആവർത്തിച്ചിരുന്നതിനാൽ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 2 ആയിരുന്നു ഇപ്പോൾ നമുക്ക് ജ്യോമട്രിക് മൾട്ടിപ്ലിസിറ്റിയും ലഭിച്ചു അതിനാൽ ഈ കേസിൽ ജ്യോമട്രിക് മൾട്ടിപ്ലിസിറ്റിയും 2 ആണ് അതിനാൽ നമുക്ക് ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 2 ഉം ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 2 ഉം ഉണ്ട് ജ്യോമട്രിക് ആൾജിബ്രയ്ക്നേക്കാൾ കൂടുതൽ ആകാൻ കഴിയില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് കുറഞ്ഞത് തുല്യത ലഭിക്കുന്നു അതിനാൽ ഈ λ 2 ന്റെ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 2 ആണ് കാരണം ഈ ലാംഡയുമായി ബന്ധപ്പെട്ട രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻവെക്ടറുകൾ നമുക്കുണ്ട് അതിനാൽ ഈ ഉദാഹരണം 2 ഈ ന്റെ ഐഗൻവാല്യൂകളും ഐഗൻവെക്റ്ററുകളും നമ്മൾ നിർണ്ണയിക്കുന്നു ഐഗൻവാല്യൂകൾ ഡയഗണൽ എൻട്രികൾ ആയിരിക്കുമെന്ന് ഈ സാഹചര്യത്തിൽ ഒരാൾക്ക് എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും കാരണം ഇത് ഒരു ലോവർ ത്രികോണാകൃതിയിലുള്ള മാട്രിക്സ് ആണ് ത്രികോണാകൃതിയിലുള്ള മാട്രിക്സ്കൾക്ക് ഐഗൻവാല്യൂകൾ എല്ലാം ഡയഗണലുകളിൽ ആയിരിക്കും ഇരിക്കുന്നത് അതിനാൽ നമ്മൾക്ക് ഈ λ 2 2 3 ഉണ്ട് ഇവയാണ് ഐഗൻവാല്യൂകൾ ത്രികോണാകൃതിയിലുള്ള മാട്രിക്സിന്റെ ഐഗൻവാല്യൂകൾ എപ്പോഴും ഒരു ഡയഗണൽ എലമെൻറ് ആണ് അതിനാൽ നമ്മൾക്ക് ഈ ഐഗൻ വാല്യൂകൾ ഉണ്ട് λ 2 2 3 ഐഗൻസ്പേസ് ഇപ്പോൾ നമ്മൾ λ 2 ന് കണക്കുകൂട്ടും വീണ്ടും ഞാൻ ഇവിടെ അർത്ഥമാക്കുന്നത് നമുക്ക് ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി അറിയണമെങ്കിൽ അത് 2 ന് 2 ആണ് ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 3 ന് 1 ആണ് അതിനാൽ ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ലഭിക്കാൻ നിങ്ങൾ ഇപ്പോൾ ഐഗൻസ്പേസ് കണക്കുകൂട്ടേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ഐഗൻസ്പേസ് അതിനാൽ ഇവിടെ 2 ഡയഗണൽ എൻട്രിയിൽ നിന്ന് കുറയ്ക്കപ്പെടും അതിനാൽ നമുക്ക് അവിടെ 0 0 1 ലഭിക്കും ഇതാണ് ഇപ്പോൾ മാട്രിക്സ് അതിനാൽ നമ്മൾ ഇവിടെ എന്താണ് കാണുന്നത് നമുക്ക് ഇത് യഥാർഥത്തിൽ എടുക്കാം നമുക്ക് ഈ റോ റെഡ്യൂസ് ചെയ്യാം തുടർന്ന് നമുക്ക് ഈ എക്കെലോൺ ഫോം ഉണ്ട് റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോം 0 റോ താഴേക്ക് കൊണ്ടുവരാൻ കഴിയും അതിനാൽ നമുക്ക് ഇവിടെ ഈ എക്കെലോൺ ഫോമിലേക്ക് എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യാൻ കഴിയും തുടർന്ന് 2 പിവറ്റ് ഘടകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കാണും ഇവിടെ 2 പിവറ്റ് ഘടകങ്ങൾ ഉണ്ടാകും നമ്മൾ ഈ എക്കെലോൺ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ഇത് ഒരു പ്രധാന ഘടകമായിരിക്കും ഈ മധ്യഭാഗം അങ്ങനെ ഇവിടെ ആദ്യ നിരയ്ക്ക് ഒരു പിവറ്റും മൂന്നാം നിരയ്ക്ക് ഒരു പിവറ്റും ഉണ്ടാകും ഈ ഫ്രീ വേരിയബിളായിരിക്കും അതിനർത്ഥം ഒരു ഫ്രീ വേരിയബിൾ മാത്രമാണ് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഒരു ഐഗൻവെക്ടർ മാത്രമേ ലഭിക്കൂ എന്നാൽ ഇപ്പോൾ നമുക്ക് ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 ആയി ലഭിച്ചു അതിനാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതിശയിക്കാനില്ല തന്നിരിക്കുന്ന ഐഗൻവാല്യൂകൾക്ക് എത്ര ഐഗൻ വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാകില്ല അതിനാൽ നമ്മൾ അവ കണക്കുകൂട്ടേണ്ടതുണ്ട് ആ ഫലത്തിൽ നിന്ന് നമുക്ക് അറിയാവുന്നത് ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റിയേക്കാൾ കുറവോ അല്ലെങ്കിൽ തുല്യമോ ആണ് ഈ 2 ന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 2 ആയിരുന്നു അതിനാൽ മിക്കവാറും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ 2 ഐഗൻവെക്ടറുകൾ ഉണ്ടാകും ഈ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് മൂന്ന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻവെക്റ്ററുകൾ ഉണ്ടാകാൻ കഴിയില്ല പക്ഷേ 2 ഉണ്ടാകുമോ അതോ 1 ഉണ്ടാകുമോ എന്ന് നമ്മൾക്ക് അറിയില്ല അതിനാൽ നമ്മൾ എന്താണ് നിരീക്ഷിച്ചത് മുമ്പത്തെ ഉദാഹരണത്തിൽ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 2 ആണെങ്കിലും ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 2 ആയിരുന്നു ഈ സാഹചര്യത്തിൽ നമുക്ക് ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 2 ഉണ്ട് എന്നാൽ ഈ കേസിൽ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി വെറും 1 ആണ് അതിനാൽ ഇവിടെ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 ആണ് കാരണം നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഒരു ഐഗൻവെക്റ്റർ ഉണ്ട് 2 ന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 2 ആണ് കാരണം 2 രണ്ടു തവണ ആവർത്തിച്ചു എന്നതിന്റെ ഐഗൻസ്പേസിലേക്ക് വരുന്നു ഒരെണ്ണം മാത്രമേ ഉണ്ടാകൂ എന്ന് നമ്മൾക്ക് ഇതിനകം അറിയാം ഈ സാഹചര്യത്തിൽ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 1 ആയതിനാൽ തീർച്ചയായും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം അതിനാൽ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ 1 ഐഗൻവെക്റ്ററിൽ കൂടുതൽ ഉണ്ടാകില്ല അതിനാൽ ഇവിടെ ഈ കണക്കാക്കുകയാണെങ്കിൽ അതിനാൽ നമ്മൾക്ക് ഇത് ഉണ്ട് തുടർന്ന് നമ്മൾ ഈ സിസ്റ്റം പരിഹരിക്കുമ്പോൾ ഈ കേസിൽ 2 പിവറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ നിരീക്ഷിക്കും നമുക്ക് ഇത് 0 ആക്കാൻ കഴിഞ്ഞാൽ ഇതും ഒരു പ്രധാന ഘടകമായി മാറും കാരണം ഇത് 0 ആയിരിക്കില്ല അതിനാൽ നിങ്ങൾക്ക് 2 പിവറ്റ് ഘടകങ്ങൾ ഉണ്ടാകും ഈ ഈ കേസിൽ ഫ്രീ വേരിയബിളായിരിക്കും അതിനാൽ മാട്രിക്സിന്റെ ഈ ഘടനയിൽ നിന്ന് ഈ ആൽഫ നോട് യോജിക്കുന്നു ഈ 0 ആകും ഉം 0 ആയിരിക്കും അതിനാൽ നമുക്ക് എന്ന പരിഹാരം ലഭിക്കും പ്രതീക്ഷിച്ചതുപോലെ അഥവാ ഈ λ 3 ന് അനുയോജ്യമായ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻവെക്ടർ മാത്രമേയുള്ളൂ അതിനാൽ ഈ λ 3 ന്റെ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 ആണ് ഈ സാഹചര്യത്തിൽ λ 3 ന്റെ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും 1 ആയിരുന്നു മറ്റൊരു ഉദാഹരണം യുടെ ഐഗെൻസ്പേസിന്റെ ഡയമെന്ഷൻ കണ്ടെത്തുക എന്നതാണ് ഇവിടെ A വളരെ പ്രത്യേക മാട്രിക്സണ് അതിനാൽ ഈ സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സമവാക്യം എഴുതേണ്ടതുണ്ട് അതിനർത്ഥം അതിനാൽ ഈ കേസിൽ നമ്മൾ നിരീക്ഷിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് സമവാക്യം ആണ് അതിനാൽ നമ്മൾക്ക് 1 1 1 എന്നീ 3 റൂട്ടുകളുണ്ട് അതായത് ഈ ന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി ഇപ്പോൾ 3 ആണ് അതിനാൽ ഇവയെല്ലാം നമുക്ക് ഒരേ ഐഗൻ വാല്യൂകളുള്ള ഒരു ഉദാഹരണമുണ്ട് പക്ഷേ മൂന്ന് തവണ ആവർത്തിച്ചു നമ്മൾ ഇവിടെ ഐഗൻസ്പേസ് കണക്കാക്കുമ്പോൾ ഈ സമവാക്യം ഉപയോഗിച്ച് ഐഗൻവെക്ടർ കണക്കാക്കണം അതിനാൽ ഈ കേസിൽ എന്ത് സംഭവിക്കും ഡയഗണൽ എൻട്രികളിൽ നിന്ന് ഈ എടുക്കുമ്പോൾ അതിനാൽ ഈ ഡയഗണലുകളെല്ലാം 0 ആയിരിക്കും നമ്മൾക്ക് ഇത് വളരെ ലളിതമായ ഒരു ഉദാഹരണമാണ് ഈ സാഹചര്യത്തിൽ 1 പിവറ്റ് മാത്രമേ ഉണ്ടാകൂ അതിനാൽ ഈ ആദ്യ കോളത്തിന് പിവറ്റ് ഉണ്ടാകും രണ്ടാമത്തേതും മൂന്നാമത്തേതും ഫ്രീ വേരിയബിളുകളായിരിക്കും അതിനാൽ ഇത് ഒരു പിവറ്റ് ഘടകമാണ് തുടർന്ന് മറ്റൊന്നുമല്ല അതിനാൽ നമ്മൾക്ക് രണ്ട് ഫ്രീ വേരിയബിളുകൾ ഉണ്ട് അതായത് 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്ടറുകൾ ഉണ്ട് അതിനാൽ നമ്മൾക്ക് ഉണ്ട് അതിനാൽ ഇവിടെ ഐഗൻവാലു 1 ഇത് 3 തവണ ആവർത്തിച്ചു അതിനാൽ ഈ ന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 1 ആണ് ഇവിടെ രണ്ടു ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടറുകൾ ഉണ്ട് അതിനാൽ ഈ ഐഗൻ സ്പേസിന്റെ ഡയമെന്ഷൻ 2 ആണ് അല്ലെങ്കിൽ ഈ ന്റെ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 2 ആണ് ഈ സാഹചര്യത്തിൽ ഇത് 3 തവണ ആവർത്തിച്ചെങ്കിലും നമുക്ക് ഈ ഡയമെന്ഷൻ 3 ആണ് ലഭിച്ചത് 2 അല്ല 1 അല്ല പക്ഷേ ഇവിടെ സാധ്യമായ വാല്യൂകൾ 3 ആകാം ഇവിടെ ഇത് പോലെ 2 ആകാം അല്ലെങ്കിൽ ഇത് 1 ആകാം ഈ ഉദാഹരണത്തിൽ വീണ്ടും നമ്മൾ ഈ ഐഡന്റിറ്റി മാട്രിക്സ് എടുക്കും അതിനാൽ മൂല്യനിർണ്ണയം വളരെ ലളിതമാണ് അതിനാൽ വീണ്ടും ഈ ഐഡന്റിറ്റി മാട്രിക്സ് എയുടെ ഐഗൻസ്പേസിന്റെ ഡയമെന്ഷൻ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സമവാക്യം എഴുതിയാൽ നമുക്ക് ഈ ലഭിക്കും അതിനാൽ വീണ്ടും നമുക്ക് ഈ 1 1 1 ഉണ്ട് ഈ ഐഗൻവാല്യൂവിന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി ഇപ്പോൾ വെറും 3 ആണ് അതിനാൽ ഈ 1 ന് അനുബന്ധമായി ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 3 ആണ് ഇപ്പോൾ നമ്മൾ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി കണക്കാക്കുകയാണെങ്കിൽ അത് രസകരമാണ് ഈ ഉപയോഗിച്ച് ഐഗൻസ്പേസ് കണക്കുകൂട്ടും അതിനാൽ ഡയഗണൽ എൻട്രികളിൽ നിന്ന് ഈ ഐഗൻവാല്യൂ 1 കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ 0 മാട്രിക്സ് ഇവിടെ കിട്ടും വീണ്ടും 0 മാട്രിക്സിന് തുല്യമാണ് അതിനാൽ ഈ കേസിൽ നമ്മൾ ഇപ്പോൾ എന്താണ് കാണുന്നത് ഇവിടെ മൂന്ന് കോളങ്ങളിലും പിവറ്റുകൾ ഇല്ല ഇവിടെ എല്ലാ വേരിയബിളുകളും അവ ഫ്രീ വേരിയബിളുകളാണ് അതിനാൽ നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് എന്നതിന് ഏത് മൂല്യവും നൽകാം അവ ഇവിടെ ഫ്രീ ആണ് അത് ഇപ്പോൾ നമ്മൾ കണ്ട ഒരു പ്രത്യേക കേസാണ് ഇവിടെ എന്നത് 0 മാട്രിക്സ് ആയി ലഭിച്ചു തുടർന്ന് നമ്മൾക്ക് ഈ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഉണ്ട് അതിനാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്തും നമ്മൾക്ക് എടുക്കാം കാരണം ഇവ മൂന്നും ഫ്രീ വേരിയബിളുകളാണ് എന്നിട്ട് ഈ അതിനാൽ ഈ കേസിൽ നമുക്ക് ന് അനുയോജ്യമായ മൂന്ന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൻവെക്റ്ററുകൾ ഉണ്ട് ന്റെ ആൾജിബ്രയ്ക് മൾട്ടിപ്ലിസിറ്റി 3 ആയിരുന്നു കൂടാതെ ഈ കേസിൽ ഐഗൻസ്പേസിന്റെ ഡയമെന്ഷനായ ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും 3 ആയിരുന്നു അതിനാൽ ഈ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടു ഇത് 3 തവണ ആവർത്തിച്ചാൽ നമുക്ക് പൂർണ്ണമായ ഡയമെന്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ 3 എന്ന ഐഗൻസ്പേസിന്റെ ഡയമെന്ഷൻ പലതവണ ആവർത്തിച്ചെങ്കിലും ആ ഫലം പറയുന്നത് അത് 3 ൽ കൂടുതലാകാൻ പാടില്ല എന്നാണ് കൂടാതെ സ്വാഭാവികമായും ഇവിടുത്തെ കേസ് അതാണ് കാരണം ഈ ഡയമെന്ഷൻ പൂർണ്ണമായ ഡയമെന്ഷൻലുള്ളതാണ് കാരണം എലെമെന്റുകൾ യിലുള്ളവയാണ് അതിന്റെ ഡയമെന്ഷൻ 3 ൽ കൂടുതൽ ആവുകയില്ല ആ അർത്ഥത്തിൽ നമുക്ക് ഇവിടെ നിഗമനം ചെയ്യാം മെട്രിക്സുകളുടെ സിമിലാരിറ്റി എന്ന ഒരു ആശയം ഇവിടെയുണ്ട് അത് ഇവിടെ അവതരിപ്പിക്കുന്നു അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ അതിന്റെ ചർച്ച തുടരും അതിനാൽ എന്ന റിലേഷൻ ഉണ്ടെങ്കിൽ ഒരു n ക്രോസ് n മാട്രിക്സ് B യെ n ക്രോസ് n മാട്രിക്സ് A ക്ക് സിമിലർ ആണെന്ന് വിളിക്കുന്നു മാട്രിക്സ് A യും B യും തമ്മിൽ ഈ ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ മാട്രിക്സ് B യെ മാട്രിക്സ് A ക്ക് സിമിലർ ആണെന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ മാട്രിക്സ് A യെ മാട്രിക്സ് B ക്ക് സിമിലർ ആണെന്ന് വിളിക്കുന്നു ഇവിടെ P എന്നത് ഒരു നോൺ സിംഗുലാർ മാട്രിക്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റ് ചെയ്യുന്ന മാട്രിക്സ് എന്നർത്ഥം അതിനാൽ ഇവിടെ B A എന്നീ രണ്ട് മാട്രിക്സുകൾ തമ്മിൽ ഈ ബന്ധം ഉണ്ടെങ്കിൽ B യ്ക്ക് മറ്റ് മാട്രിക്സ് നൽകുന്നുവെങ്കിൽ ഇവ രണ്ടും സമാനമാണെന്ന് നമ്മൾ വിളിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ സമാനമായ പദങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്ന് തന്നെ പരിശോധിക്കുന്ന ചില പ്രോപ്പർട്ടികൾ പരിശോധിക്കും ഈ B A എന്നിവയുടെ പൊതുവായ ഗുണങ്ങൾ ഐഗൻ വാല്യൂകൾ ഐഗൻവെക്റ്ററുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവ പങ്കിടുന്നു കൂടാതെ മറ്റ് പരിഗണനകളും നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ തുടരും അതിനാൽ ഇന്ന് നമ്മൾ കാണും B A യ്ക്ക് സിമിലർ ആണെങ്കിൽ B യ്ക്ക് A ന്റെ അതേ ഐഗൻവാല്യൂസ് ഉണ്ട് അർത്ഥം ഒന്നിന്റെ ഐഗൻ വാല്യൂകളും ഐഗൻവെക്റ്ററുകളും നമുക്കറിയാമെങ്കിൽ മറ്റൊന്നിന്റെ ഐഗൻവെക്റ്ററുകളും ഐഗൻ വാല്യൂകളും നമുക്ക് ലഭിക്കും വാസ്തവത്തിൽ അവയ്ക്ക് ഒരേ ഐഗൻ വാല്യൂകളും ഐഗൻവെക്റ്ററുകളും ആണുള്ളത് കൂടാതെ ആയിരിക്കും സിമിലാരിറ്റിയുടെ നിർവചനത്തിൽ നമ്മൾ ഇതിനകം അവതരിപ്പിച്ചു അതിനാൽ ലാംബഡ മാട്രിക്സ് A യുടെ ഐഗൻ മൂല്യമാണെന്നും B എയ്ക്ക് സമാനമാണെന്നും പറഞ്ഞാൽ ഈ A യുമായി നമുക്ക് ആദ്യം ഉള്ള ബന്ധം എന്നത് ഐഗൻവെക്റ്ററും ഐഗൻ വാല്യൂ ആണ് അതിനാൽ നമ്മൾക്ക് ഈ ബന്ധം ഉണ്ട് നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഈ കൊണ്ട് നമ്മൾ ഇവിടെ ഗുണിക്കുന്നു അതിനാൽ നമുക്ക് അതിനാൽ B യുടെ ഒരു ഐഗൻ വാല്യൂ ആണ് എന്നത് ഐഗൻ വാല്യൂന് അനുയോജ്യമായ ഒരു ഐഗൻവെക്റ്ററും ആണ് ആദ്യ ഫലത്തിൽ നമ്മൾ ഇതിനകം കണ്ട മറ്റൊരു ഫലമാണ് A B എന്നിവ സ്ക്വയർ സിമിലർ മാട്രിക്സ്കൾ ആണെങ്കിൽ അവയ്ക്ക് ഒരേ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഉണ്ട് അതിനാൽ ഒടുവിൽ അവക്ക് ഒരേ ഐഗൻവാല്യൂ ഉണ്ടെന്ന് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ ഒരേ ഐഗൻ വാല്യൂകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ഒരേ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഉണ്ട് എന്നാൽ ഇത് അതിനെ നോക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം മാത്രമാണ്

അതിനാൽ നമ്മൾ എടുക്കുന്നു അതിനാൽ ഈ ന് തുല്യമാണെന്ന് നമ്മൾ കണ്ടു അതിനാൽ അവയ്ക്ക് ഒരേ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഉണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ A B എന്നിവയ്ക്ക് ഒരേ ഐഗൻ വാല്യൂകൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പറയാം ഐഗൻവെക്റ്ററുകളുമായുള്ള ബന്ധം ഇവിടെ മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ വീണ്ടും കണ്ടു നിഗമനത്തിലെത്തുമ്പോൾ ഈ ലെക്ച്ചറിൽ നമ്മൾ അൽജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയെക്കുറിച്ച് സംസാരിച്ചു അത് ഒരു ഐഗൻ വാല്യൂ എത്ര പ്രാവശ്യം സംഭവിച്ചു എന്നത്തിന്റെ എണ്ണമാണ് കൂടാതെ ഈ ഐഗൻ വാല്യൂവുമായി ബന്ധപ്പെട്ട ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൻവെക്റ്ററുകളുടെ എണ്ണമായിരുന്ന ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും നമ്മൾ കണ്ടു ജ്യോമെട്രിക് മൾട്ടിപ്ലിസിറ്റി അൽജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയെക്കാൾ കുറവോ തുല്യമോ ആയിരിക്കുമെന്നും നമ്മൾ കണ്ടു സിമിലർ മാട്രിക്സുകളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു അതിനർത്ഥം P എന്ന ചില ഇൻവെർട്ടിബിൾ മാട്രിക്സുകൾക്ക് എന്ന റിലേഷൻ തൃപ്തിപ്പെടുന്ന വിധത്തിലുള്ള A B എന്നീ മാട്രിക്സുകൾ ഉണ്ടെങ്കിൽ അവയെ ABയെ സിമിലർ മാട്രിക്സുകൾ എന്ന വിളിക്കുന്നു ഈ ലെക്ച്ചറുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി